നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം പ്രതലത്തിന്റെ ദൃഢത പോലുള്ള ഭൌതികമായ ഘടകങ്ങളുടെ പ്രഭാവം മൂലകോശങ്ങളുടെ ഗതി എപ്രകാരം നിർണ്ണയിക്കുന്നു എന്ന് നാം ഇക്കഴിഞ്ഞ ലെക്ച്ചറിൽ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി കോശങ്ങളുടെ ആകൃതിയും അവയിൽ അനുഭവപ്പെടുന്ന ടെൻഷനും കോശങ്ങളുടെ ഗതിയെ വ്യക്തമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ടെൻഷന്റെ നിരക്ക് താഴുമ്പോൾ അഡിപോജെനിക് ഡിഫറെൻസിയേഷനും എന്നാൽ ടെൻഷൻ വർദ്ധിക്കുമ്പോൾ ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷനും ദൃശ്യമാകുന്നു എന്നതാണ് വസ്തുത മാത്രമല്ല സുസ്ഥിരമായ സ്പ്രെഡ് ഏരിയയിൽ കാണപ്പെടുന്ന കോശത്തിന്റെ ആകൃതിയിൽ ദൃശ്യമാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും അവയുടെ ഗതി നിയന്ത്രിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നാം നേരത്തെ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രബന്ധത്തിൽ സൂചിപ്പിച്ചിരുന്നു ലെക്ച്ചറിന്റെ അന്തിമ ഘട്ടത്തിൽ ദൃഢതയെ കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി ECM ന്റെ ദൃഢത കോശങ്ങളുടെ വ്യാപനത്തെ കാര്യക്ഷമമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് യു ലി വാങ് എന്ന ഗവേഷകൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ പ്രബന്ധത്തിലൂടെ ആദ്യമായി തെളിവ് സഹിതം സമർത്ഥിക്കുകയുണ്ടായി പ്രബലമായ ഫോക്കൽ എഡ്ഹെഷൻ സിഗ്നലിങ് സംവിധാനത്തിന്റെ സാന്നിധ്യമാണ് കോശങ്ങളിൽ പ്രകടമാകുന്ന മേല്പറഞ്ഞ വർദ്ധിത വ്യാപനത്തെ പ്രേരിപ്പിക്കുന്നത് കോശങ്ങളുടെ പ്രവൃദ്ധി അവയുടെ മൈഗ്രേഷൻ എന്നിവയിലും മേൽ സൂചിപ്പിച്ച പ്രഭാവത്തിന് ഗണ്യമായ നിയന്ത്രണമുണ്ടെന്ന് സ്ഥിതീകരിക്കുന്ന ഒട്ടനേകം പഠനങ്ങൾ പ്രസ്തുത വിഷയത്തിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല ഡിഫറെൻസിയേഷൻ പ്രക്രിയ നിർണ്ണയിക്കുന്നതിലും ദൃഢത എന്ന ഘടകം വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ് വസ്തുത സെൽ 2006 ൽ പ്രസിദ്ധീകരിച്ച മെട്രിക്സ് ഇലാസ്റ്റിറ്റി മൂലകോശങ്ങളുടെ ലീനിയേജ് സ്പെസിഫിക്കേഷനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് ചർച്ച ചെയ്യുന്ന പ്രബന്ധത്തിൽ നിന്ന് തന്നെ നമുക്ക് ചർച്ച ആരംഭിക്കാം ഇൻ വൈവോ സാഹചര്യങ്ങളിൽ ഇവയുടെ മാഗ്നിറ്റ്യുഡ് അടിസ്ഥാനപ്പെടുത്തി അണിനിരത്തുകയാണെങ്കിൽ 1 kPa രേഖപ്പെടുത്തുന്ന മസ്തിഷ്കം അതിമൃദുലവും 10 kPa കാഴ്ചവെക്കുന്ന പേശി താരതമ്യേന മിതമായ ദൃഢതയുള്ളതും എന്നാൽ 100 kPa രേഖപ്പെടുത്തുന്ന അസ്ഥി സാമാന്യം ദൃഢതയേറിയതുമാണ് എന്നാൽ ഇവയിൽ നിന്നെല്ലാം വിഭിന്നമായി രക്തം അങ്ങേയറ്റം ദ്രവ്യാവസ്ഥയിൽ നിലകൊള്ളുന്നു എന്നതാണ് വസ്തുത ഇൻ വൈവോ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തയിനം പരിതസ്ഥിതികൾ കണക്കിലെടുക്കുമ്പോൾ മൂലകോശങ്ങൾ മേല്പറഞ്ഞ ദൃഢതയെന്ന ഘടകത്തിനോട് എപ്രകാരമാണ് പ്രതികരിക്കുന്നത് മേല്പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനായി കൊളാജെൻ ഉപയോഗപ്പെടുത്തി പ്രവർത്തന സജ്ജമാക്കിയ PA ജെല്ലുകൾക്ക് മുകളിലായി ഗവേഷകർ ഏതാനും ചില hMSC കോശങ്ങൾ പ്ലേറ്റ് ചെയ്യുകയുണ്ടായി സാധാരണ സെൽ കൾച്ചറുകളിൽ കാണപ്പെടുന്നത് പോലെ സീറത്തിന്റെ തോത് അവശ്യ വളർച്ച ഘടകമെന്ന നിലയ്ക്ക് പത്ത് ശതമാനം എന്ന നിരക്കിൽ മാത്രം നിലനിർത്തുകയുണ്ടായി ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് ഘടകങ്ങളൊന്നും അധികമായി ചേർത്തതുമില്ല ശേഷം ഗവേഷകർ മേല്പറഞ്ഞ PA ജെല്ലുകളുടെ ദൃഢത കൃത്യമായി ക്രമീകരിക്കുകയുണ്ടായി മറ്റ് കോശങ്ങൾക്ക് സമാനമായി ദൃഢതയുടെ പ്രവർത്തനമായി കണക്കാക്കി കോശങ്ങളുടെ വ്യാപനം 24 മണിക്കൂറിന്റെ ഇടവേളയ്ക്ക് ശേഷം അളന്ന് തിട്ടപ്പെടുത്തുകയാണെങ്കിൽ വർദ്ധിത നിരക്കിൽ വ്യാപനം കാഴ്ചവെക്കുന്ന കോശങ്ങളുടെ ഒരു പൂരിതമായ പ്രൊഫൈൽ നമുക്ക് ദൃശ്യമാകും എന്നതാണ് വസ്തുത മൃദുവായ പ്രതലത്തിൽ മേല്പറഞ്ഞ കോശങ്ങളുടെ വ്യാപനം തീർത്തും മന്ദഗതിയിലായിരിക്കും എന്നാൽ ദൃഢതയുടെ നിരക്കിൽ വർദ്ധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കോശങ്ങളുടെ വ്യാപനത്തിലും അനുരൂപമായ വർദ്ധനവ് പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഒരു വ്യക്തമായ പരിധിക്കപ്പുറം വ്യാപനത്തിന്റെ തോത് സ്ഥായിയായ നിരക്കിൽ തുടരുന്നതായി നമുക്ക് ദൃശ്യമാകും സമാനമായ പ്രതികരണം മറ്റ് പല കോശങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തീർത്തും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് ഇവിടെ ഈ കാണപ്പെടുന്നത് hMSC കോശങ്ങളുടെ പ്രതികരണമാണ് എന്നാൽ ഫൈബ്രോബ്ലാസ്റ്റ് പോലുള്ള മറ്റ് എഡ്ഹെറെന്റ് കോശങ്ങളിൽ സ്ഥിതി വിഭിന്നമാണ് എന്നിരുന്നാലും ഇവയുടെ ആകൃതിയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് എന്താണ്ട് 1kPa നിരക്കിൽ ദൃഢതയുള്ള അതിമൃദുലമായ പ്രതലമാണ് എന്നാൽ ഇതാകട്ടെ 12kPa ദൃഢതയുള്ള താരതമ്യേന ദൃഢമായ ജെല്ലാണ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇവ ഏകദേശം 34kPa എന്ന തോതിൽ അധിക ദൃഢതയുള്ള പ്രതലമാണ് മേൽ സൂചിപ്പിച്ചത് പോലെ ഇവയുടെ ആകൃതിയെ സംബന്ധിച്ച ചോദ്യം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ 1kPa നിരക്കിൽ അതിമൃദുലമായ ജെല്ലിനുമേൽ കോശങ്ങൾ സാമാന്യം സുദീർഘമായതോ അല്ലെങ്കിൽ ശാഖകളായി പടർന്നിറങ്ങിയ നിലയിലുള്ളതോ ആയ മോർഫോളജിയാണ് കാഴ്ചവെക്കുന്നത് നാഡീകോശങ്ങളെ അനുകരിക്കുന്ന വിധമുള്ള ബ്രാഞ്ച്ഡ് മോർഫോളജിയാണ് ഇവയ്ക്കുള്ളത് ഇതാണ് ഇവയുടെ ന്യൂക്ലിയസ് എന്നാൽ 12kPa ദൃഢതയുള്ള ഉപരിതലത്തിൽ നിന്നും വീക്ഷിക്കുമ്പോൾ പേശികളുടേതിന് സമാനമായ ആകൃതിയിലാണ് മേല്പറഞ്ഞ കോശങ്ങൾ ദൃശ്യമാകുന്നത് എന്നാൽ 34kPa ദൃഢതയുള്ള പ്രതലത്തിൽ കാണപ്പെടുന്നവയാകട്ടെ സുദീർഘമായ പേശീകോശങ്ങളുടെ ആകൃതിയിൽ നിന്നും വ്യത്യസ്തമായി പോളിഗണൽ മാതൃകയിലാണ് കാണപ്പെട്ടത് ദൃഢമായ പരിതസ്ഥിതികളിൽ കാണപ്പെടുന്നതിന് സമാനമായ ബഹുകോണായ പോളിഗണൽ ആകൃതി തന്നെയാണ് സുതാര്യമായ ഗ്ലാസ്സിൽ അണിനിരത്തപ്പെട്ട കോശങ്ങളിലും ദൃശ്യമായത് ശേഷം ഗവേഷകർ കോശങ്ങളുടെ മേല്പറഞ്ഞ ആകൃതി ആധാരമാക്കി സ്പിൻഡിൽ ഫാക്റ്റർ എന്ന നാമധേയത്തിൽ പരസ്പരബന്ധിതമായ ഏതാനും ചില കോറിലേഷനുകൾ നിർവചിക്കുകയുണ്ടായി എന്താണ് ഈ സ്പിൻഡിൽ ഫാക്ടർ കോശങ്ങളുടെ ആകൃതി ഒരു എലിപ്സിന് സമമായി കണക്കാക്കുകയാണെങ്കിൽ സ്പിൻഡിൽ ഫാക്ടർ എന്നത് അവയുടെ മേജർ ആക്സിസിനെ മൈനർ ആക്സിസ് കൊണ്ട് ഹരിച്ചാൽ ലഭ്യമാകുന്ന തുകയാണ് പ്രസ്തുത കോശം ഒരു പ്രത്യേക ദിശയിൽ അല്പം നീണ്ട ആകൃതിയിലാണ് കാണപ്പെടുന്നത് എന്നതാണ് മേല്പറഞ്ഞ തുകയുടെ ഉയർന്ന മൂല്യം കൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് മാത്രമല്ല മേല്പറഞ്ഞ സ്പിൻഡിൽ ഫാക്ടർ ഉപയോഗപ്പെടുത്തി കോശങ്ങളിൽ എത്ര ശാഖകളുണ്ട് അവയുടെ ശരാശരി നിരക്ക് എത്ര എന്നീ വിവരണങ്ങൾ എല്ലാം നമുക്ക് ലഭ്യമാകും എന്നതാണ് വസ്തുത ബ്രാഞ്ചിങിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ മൃദുവായ പ്രതലങ്ങളിൽ ആരംഭത്തിൽ പ്രകടമായ പരമാവധി നിരക്കിലുള്ള ബ്രാഞ്ചിങ് പതിയെ താഴുന്നതായി നമുക്ക് ദൃശ്യമാകും പൂർണ്ണവികാസമെത്തിയ നാഡീകോശങ്ങളിലും സമാനമായ സ്വഭാവം ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി ഈ കാണുന്നത് പക്വമായ ന്യൂറോണൽ കോശങ്ങളാണ് എങ്കിൽ ഇവ നമ്മുടെ hMSC കോശങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ മൃദുലമായ ഉപരിതലങ്ങളിൽ തീർത്തും വർദ്ധിതമായ നിരക്കിലാണ് മേല്പറഞ്ഞ ബ്രാഞ്ചിങ് പ്രക്രിയ പ്രകടമാകുന്നത് മാത്രമല്ല സ്റ്റിഫ്നെസ്സ് ആക്സിസിനെ ആധാരമാക്കി സ്പിൻഡിൽ ഫാക്ടർ രേഖപ്പെടുത്തുകയാണെങ്കിൽ 12 kPa ദൃഢതയുള്ള ജെല്ലിന് പേശി കോശങ്ങളുടേതിന് സമാനമായ ദൃഢതയാണുള്ളതെന്ന് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി മൃദുപ്രതലങ്ങളിൽ പ്രകടമാകുന്നതിന് സമാനമായ വർദ്ധിത നിരക്കിലുള്ള ബ്രാഞ്ചിങ് തന്നെയാണ് ഗവേഷകർ ഇവിടെയും നിരീക്ഷിക്കുകയുണ്ടായത് ആയതിനാൽ C2C12 മയോബ്ലാസ്റ്റ് പോലുള്ള പക്വമായ പേശീകോശങ്ങളിൽ അധിക അളവിൽ പ്രകടമാകുന്ന സ്പിൻഡിൽ ഫാക്ടറുകൾക്ക് അനുരൂപമായ വിധത്തിലാണ് മിതമായ ദൃഢത കാഴ്ചവെക്കുന്ന ഉപരിതലത്തിൽ അണിനിരത്തിയ hMSC കോശങ്ങളിലും മേല്പറഞ്ഞ ഫാക്ടറുകൾ ദൃശ്യമാകുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ മിതമായ തോതിൽ ദൃഢതയുള്ള പ്രതലങ്ങളിൽ പരമാവധി നിരക്കിലുള്ള ഇലോങേഷൻ സാധിക്കും എന്നതാണ് വസ്തുത തികച്ചും ശ്രദ്ധേയമായ മറ്റൊരു നിരീക്ഷണമെന്തെന്നാൽ ബ്ലെബ്ബിസ്റ്റാറ്റിൻ എന്ന രാസസംയുക്തം ലേപനം ചെയ്ത കോശങ്ങളിൽ മയോസിൻ II വിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ് മേല്പറഞ്ഞ ആകൃതിയെ സംബന്ധിക്കുന്ന സൂചികകൾ ഇൻ വൈവോ സാഹചര്യങ്ങളിൽ പ്രകടമാകുന്ന ദൃഢതയോട് മാത്രമല്ല മറിച്ച് സെൻസിങിനായി കൺട്രാക്ടയിൽ ഫോഴ്സുകളെ സൃഷ്ടിച്ചെടുക്കാൻ ആവശ്യമായ മയോസിൻ II ഘടകങ്ങളുമായും അവ പരസ്പരബന്ധം പുലർത്തുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ആയതിനാൽ മേല്പറഞ്ഞ മയോസിൻ II വിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിലൂടെ കോശങ്ങളുടെ ആകൃതിയിൽ പ്രകടമാകുന്ന സകല പരിവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കപ്പെടും എന്നതാണ് വസ്തുത ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗവേഷകർ ഇവയുടെ ട്രാൻസ്ക്രിപ്റ്റ് പ്രൊഫൈൽ രൂപീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി ഇതിനായി ഗവേഷകർ ട്രാൻസ്ക്രിപ്റ്റ് പ്രൊഫൈലിങും ഇമ്യൂണോസ്റ്റെയിനിങും നടത്തുകയുണ്ടായി പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി അവർ ഏതാനും ചില നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു ദൃഢതയുടെ പ്രവർത്തനമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മുൻപിൽ മൂന്ന് സുപ്രധാന സോണുകളാണ് നിലവിലുള്ളത് മസ്തിഷ്കത്തിന്റെ മാർദ്ദവത്തിന് അനുരൂപമായ സോണാണ് ഒന്ന് ഇത്തരം മൃദുവായ പ്രതലങ്ങളിൽ hMSC കോശങ്ങൾ ന്യൂറോജെനിക് ലീനിയേജാണ് കാഴ്ചവെക്കുന്നത് മിതമായ ദൃഢതയുള്ള ഉപരിതലത്തിൽ അവ മസിൽ സ്പെസിഫിക്ക് ലീനിയേജും എന്നാൽ സുദൃഢമായ പ്രതലങ്ങളിൽ അവ ബോൺ സ്പെസിഫിക്ക് ലീനിയേജുമാണ് പ്രദർശിപ്പിക്കുന്നത് ശേഷം കോശങ്ങളിൽ വീണ്ടും ബ്ലെബ്ബിസ്റ്റാറ്റിൻ ഉപയോഗപ്പെടുത്തി നിരീക്ഷിക്കുകയാണെങ്കിൽ ഡിഫറെൻസിയേഷൻ പ്രക്രിയ ആകമാനം തടസ്സപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത പ്രാരംഭദശയിൽ തന്നെ ഡിഫറെൻസിയേഷൻ പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന പേശീകോശങ്ങൾ പൂർണ്ണമായ തോതിൽ പ്രവർത്തനസജ്ജമാകാൻ പര്യാപ്തമാണോ എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് പേശീകോശങ്ങളുടെ വംശാവലിയിൽ സമാനമായ പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന പ്രൊഫൈൽ ഏത് വിധേനയുള്ളതായിരിക്കും എന്നും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു മേല്പറഞ്ഞ പേശീകോശങ്ങൾ ദൃഢതയുടെ നിരക്ക് 10 kPa എന്ന് രേഖപ്പെടുത്തിയ അതെ ഇടത്ത് തന്നെ സമാനമായ പീക്ക് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത എന്നാൽ പ്രസ്തുത കോശങ്ങളുടെ എക്സ്പ്രെഷൻ വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രദർശിപ്പിക്കപ്പെടുന്നത് C2C12 സ്കെലിറ്റൽ കോശങ്ങളുടെ കാര്യത്തിലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് hMSC കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ C2C12 കോശങ്ങളുടെ ശരാശരി എക്സ്പ്രെഷൻ ക്രമാധീതമായ നിരക്കിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഇവ രണ്ടും 10 kPa എന്ന് രേഖപ്പെടുത്തിയ അതെ ഇടത്ത് തന്നെയാണ് പീക്കുകൾ കാണിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മസിൽ ഇലാസ്റ്റിസിറ്റിക്ക് അനുസൃതമായി hMSC കോശങ്ങൾ പേശീകോശങ്ങൾക്ക് അനുരൂപമായ ഫീനോടൈപ്പാണ് കാഴ്ചവെക്കുന്നത് എങ്കിലും അവ പ്രവർത്തനക്ഷമമായ പേശികളല്ല എന്നതാണ് വസ്തുത ദൃഢമായ പ്രതലങ്ങളിൽ അണിനിരത്തപ്പെട്ട കമ്മിറ്റഡ് സെൽ ലൈനിലുള്ള അസ്ഥികോശങ്ങളുടെ സിഗ്നലുകൾ നാം ഇവിടെ രേഖപ്പെടുത്തുകയാണെന്ന് കരുതുക ഈ കാണുന്നത് hFOB ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് hMSC കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ hFOB കോശങ്ങൾ വർദ്ധിതമായ നിരക്കിൽ ബോൺ സ്പെസിഫിക്ക് ലീനിയേജ് കാഴ്ചവെക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അസ്ഥികളുടേതിന് സമാനമായ പ്രതലങ്ങളിലും ഇതേ രീതിയിലുള്ള പീക്കുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് മേൽ സൂചിപ്പിച്ച ഭൌതികമായ ഘടകങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടെങ്കിൽ മറ്റ് രാസഘടകങ്ങളുടെ സാധ്യത എന്തായിരിക്കും എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് കോശങ്ങളുടെ വിധിനിർണ്ണയത്തിൽ മേല്പറഞ്ഞ രാസഘടകങ്ങൾ മാത്രമാണ് ഗണ്യമായ പങ്ക് വഹിക്കുന്നത് എന്ന പൊതുവായ ധാരണയ്ക്ക് വിരുദ്ധമായാണ് പ്രസ്തുത പ്രസ്താവന നിലകൊള്ളുന്നത് ഇതിന്റെ ഭാഗമായി ഗവേഷകർ ഏതാനും ചില പരീക്ഷണങ്ങൾ കൂടി നടത്തുകയുണ്ടായി 10kPa ലിൽ hMSC യുടെ സിഗ്നൽ സൂചിപ്പിക്കുന്ന പീക്കാണിത് C2C12 പോലുള്ള കമ്മിറ്റഡ് മസിൽ കോശങ്ങളിൽ നമുക്ക് ഇത്തരമൊരു പീക്കാണ് ലഭ്യമാകുന്നത് ഇത് C2C12 ഉൾപ്പെടുന്ന മസിൽ സെൽ ലൈനിനുള്ള കോശങ്ങളുടെ പീക്കാണെങ്കിൽ ഇവ നിങ്ങളുടെ hMSC കോശങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് ഇതിലേക്ക് ഒരു മസിൽ ഇൻഡക്ഷൻ ഫാക്ടർ ചേർക്കുകയാണെങ്കിൽ ഇവയുടെ എക്സ്പ്രെഷൻ പ്രൊഫൈൽ ഏതാണ്ട് ഇതുപോലിരിക്കും ഈ കാണുന്നത് hMSCമസിൽ ഇൻഡക്ഷൻ മീഡിയയുടെ പീക്കാണ് പ്രസ്തുത ലയനസൂചകങ്ങൾ ചേർക്കുമ്പോൾ ദൃഢതയുടെ സ്വാധീനമില്ലാതെ തന്നെ ഇവയുടെ സ്ഥിതിയിൽ സ്വതന്ത്രമായി വർദ്ധനവ് പ്രകടമാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ഈ കാണുന്ന പ്രതലങ്ങളുടെ ബേസ് ലൈനിൽ വ്യക്തമായ വ്യതിയാനം കൊണ്ട് വന്നാലും ഭൌതികമായ സിഗ്നലുകളെ സൂചിപ്പിക്കുന്ന അവയുടെ പീക്കുകൾ അതേപടി നിലനിൽക്കുന്നു എന്നത് തീർത്തും ശ്രദ്ധേയമാണ് മസിൽ ഇൻഡക്ഷൻ മീഡിയ ചേർക്കുന്നതിന് അനുസൃതമായി ദൃഢതയുടെ നിരക്ക് നാം ഉചിതമായി ക്രമീകരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന പ്രതലങ്ങളിൽ ലഭ്യമാകുന്ന സിഗ്നലുകൾ C2C12 സെൽ ലൈനിനോട് ഏറെ അടുത്ത് നിൽക്കുന്നതായി നമുക്ക് ദൃശ്യമാകും എന്നതാണ് വസ്തുത ചുരുക്കിപ്പറഞ്ഞാൽ മൈക്രോ എൻവയോൺമെന്റും ലിഗാൻഡ് പോലുള്ള സുപ്രധാന ലയനസൂചകങ്ങളും കോശങ്ങളുടെ അന്തിമമായ ആവിഷ്കരണം നിയന്ത്രിക്കുന്നതിൽ വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സാരം സിനർജിസ്റ്റിക്ക് പ്രഭാവം പ്രകടമാക്കുന്ന രണ്ട് സിഗ്നലുകളുടെ ഉദാഹരണമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തത് പരസ്പരം എതിർക്കുന്ന രണ്ട് സിഗ്നലുകൾ നിലവിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഓസ്റ്റിയോജെനിക് ലയനസൂചകങ്ങൾ മൃദുപ്രതലങ്ങളിൽ ലയിപ്പിക്കുകയാണെങ്കിൽ hMSC കോശങ്ങൾ ഇവയോട് എപ്രകാരമാണ് പ്രതികരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം ലഭ്യമായ ഭൌതിക സൂചനകളിൽ നിന്നും മൃദുപ്രതലങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങൾ ന്യൂറോണൽ ലീനിയേജിലേക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രവണതയാണ് ഏറെയുള്ളത് എന്നാൽ ഓസ്റ്റിയോജെനിക് ലയനസൂചകങ്ങൾ നൽകുന്നതിലൂടെ അക്ഷരാർത്ഥത്തിൽ നാം കോശങ്ങളെ ആശയകുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് മേല്പറഞ്ഞ പഠനം ഈ കാണുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് കാഴ്ചവെച്ചത് ഇവിടെ സമയത്തിനെ നാം ആഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് നമുക്ക് നാല് ആഴ്ചകളുടെ കാലയളവാണ് ഉള്ളത് പ്രസ്തുത പഠനത്തിന്റെ ഭാഗമായി ബീറ്റ 3 ട്യൂബുലിൻ എന്ന ന്യൂറോണൽ മാർക്കർ നാം ട്രാക്കുചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ് വസ്തുത പ്രസ്തുത ന്യൂറോണൽ മാർക്കറിന്റെ നിരക്ക് ഒരാഴ്ച പരിധിയിൽ വർദ്ധിക്കുകയും പിന്നീട് പരന്നതായി തുടരുകയും ചെയ്യുന്നതായാണ് ഗവേഷകർക്ക് കണ്ടെത്താനായത് യാതൊരു വിധത്തിലുള്ള ലയനസൂചകങ്ങളുടെയും സാന്നിധ്യമില്ലാതെയാണ് ഇത് ദൃശ്യമായത് എന്നതും ശ്രദ്ധേയമാണ് ശേഷം ഗവേഷകർ ഓസ്റ്റിയോജെനിക് ഫാക്ടർ CBFA ആൽഫ 1 അടങ്ങുന്ന ഓസ്റ്റിയോജെനിക് മീഡിയ അഥവാ ഓസ്റ്റിയോ ഇൻഡക്ഷൻ മീഡിയ സംയോജിപ്പിച്ച് ഒരാഴ്ചക്കപ്പുറം നിരീക്ഷിച്ചപ്പോൾ മേൽ സൂചിപ്പിച്ച ഓസ്റ്റിയോജെനിക് ഫാക്ടറിന്റെ തോത് വർദ്ധിക്കുന്നതായും മറിച്ച് അഡിപോജെനിക് ന്യൂറോണൽ ഫാക്ടറിന്റെ നിരക്ക് പതിയെ കുറയുന്നതായും അവർ കണ്ടെത്തുകയുണ്ടായി ഇതാകട്ടെ OIM എന്ന സംയുക്തം ഒരാഴ്ച അവധിക്ക് ശേഷം മാത്രം ചേർത്ത അവസ്ഥയാണിത് ഈ കാണുന്നതാണ് ബേസ് ലൈൻ ഇതിനെ ആസ്പദമാക്കി വീക്ഷിക്കുകയാണെങ്കിൽ OIM ന്റെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവ് പ്രകടമാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് ഓസ്റ്റിയോ സിഗ്നലാണ് എന്നാൽ ബീറ്റ 3 ട്യൂബുലിനെ സൂചിപ്പിക്കുന്ന ഈ സിഗ്നൽ ക്രമേണ നിലംപതിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ന്യൂറോണൽ മാർക്കറിന്റെ നിരക്കിൽ പതനം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ബോൺ മാർക്കറിൽ വർദ്ധനവ് പ്രകടമാകുന്നുണ്ട് എന്നാൽ മേല്പറഞ്ഞ ഘടകങ്ങൾ മൂന്നോ നാലോ ആഴ്ചകൾക്ക് ശേഷം ചേർത്താലും അല്ലെങ്കിൽ വളരെക്കാലത്തിനുശേഷം ചേർക്കുകയാണെങ്കിലും പിന്നീടുള്ള ടൈം പോയിന്റുകളിൽ ഓസ്റ്റിയോ മാർക്കറിന്റെ നിരക്കിൽ പ്രകടമായ വർദ്ധനവൊന്നും ദൃശ്യമാകുന്നില്ല എന്നതാണ് വസ്തുത മേൽ സൂചിപ്പിച്ച മാറ്റം തീർത്തും നിസാരമാണ് അതായത് മൂന്ന് ആഴ്ചകൾക്ക് ശേഷം OIM ചേർക്കുകയാണെങ്കിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ തീർത്തും അപ്രസക്തമായിരിക്കും എന്ന് സാരം ഇതൊരു ചലനാത്മകമായ പ്രക്രിയയാണ് എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് മെക്കാനിക്കലി കണ്ടീഷൻ ചെയ്ത കോശങ്ങൾ കമ്മിറ്റഡാകുന്നതിനാൽ മേല്പറഞ്ഞ ഓസ്റ്റിയോ സിഗ്നലുകൾക്ക് അവയ്ക്കുമേൽ കാര്യമായ പ്രഭാവമുണ്ടാകണമെന്നില്ല നേരത്തെ സൂചിപ്പിച്ചത് പോലെ ബ്ലെബ്ബിസ്റ്റാറ്റിൻ എന്ന സംയുക്തം ഉപയോഗപ്പെടുത്തുമ്പോൾ ഡിഫറെൻസിയേഷൻ പ്രക്രിയ തടസ്സപ്പെടുന്നതായി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ചുരുക്കിപ്പറഞ്ഞാൽ ഡിഫറെൻസിയേഷൻ പ്രക്രിയ മയോസിൻ II എന്ന ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സ്പഷ്ടം മേല്പറഞ്ഞ ഡിഫറെൻസിയേഷൻ മയോസിൻ II വിൽ ആശ്രിതമായാണ് പ്രവർത്തിക്കുന്നത് ദൃഢതയ്ക്ക് അനുസൃതമായി അടിയ്ക്കടി വ്യതിയാനം ദൃശ്യമാകാത്ത മയോസിൻ IIA യുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും വിഭിന്നമായി ദൃഢതയുടെ ശക്തമായ സ്വാധീനത്തിൽ ആശ്രിതമായാണ് മയോസിൻ IIB നിലകൊള്ളുന്നത് മയോസിൻ IIB എന്ന ഘടകം സ്റ്റിഫ്നെസ്സ് സെൻസിങുമായും എന്നാൽ IIA എന്ന ഘടകം സൈറ്റോസ്കെലിറ്റൽ ഓർഗനൈസേഷനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ECM ന്റെ ദൃഢതയിൽ വർദ്ധനവ് പ്രകടമായാൽ സ്വാഭാവികമായും hMSC കോശങ്ങളുടെ എഡ്ഹെഷൻ കൺട്രാക്ടയിലിറ്റി എന്നീ ഘടകങ്ങളിലും അതിന്റെ പ്രതിഫലനമുണ്ടാകും എന്ന് ഗവേഷകർ പഠനങ്ങളിലൂടെ സ്ഥിതീകരിക്കുകയുണ്ടായി കോശങ്ങളിൽ ദൃശ്യമാകുന്ന സുശക്തമായ കൺട്രാക്ടയിൽ ഫോഴ്സുകളെ ഭദ്രമായി നിലനിർത്തുവാൻ പ്രബലമായ എഡ്ഹെഷനുകൾ തീർത്തും അനിവാര്യമാണ് എന്നതാണ് വസ്തുത C2C12 പേശീകോശങ്ങൾ അല്ലെങ്കിൽ hFOB ഓസ്റ്റിയോബ്ലാസ്റ്റ് മൂലകോശങ്ങൾ പോലുള്ള പക്വമായ കോശങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ hMSC കോശങ്ങൾ താരതമ്യേന മെക്കനോ സെൻസിറ്റീവ് ആണെന്നതാണ് വസ്തുത മേല്പറഞ്ഞ കോശങ്ങളുടെ കോർട്ടിക്കൽ സെൽ ലൈനുകൾ പ്രോബ് ചെയ്ത് വിശകലനം നടത്തിയാണ് ഗവേഷകർ ഇത്തരമൊരു നിഗമനത്തിലെത്തിച്ചേർന്നത് ഈ കാണുന്നത് ദൃഢതയെ സൂചിപ്പിക്കുന്ന ആക്സിസാണ് ഇത് C2C12 കോശങ്ങളാണ് എന്നാൽ ഇതാകട്ടെ hFOB കോശങ്ങളുടെ പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മേല്പറഞ്ഞ മൂലകോശങ്ങൾ മധ്യവർത്തിയായ ഒരു പ്രതിഭാസമാണ് കാഴ്ചവെക്കുന്നത് മൃദുപ്രതലങ്ങളിൽ മേൽ സൂചിപ്പിച്ച hMSC കോശങ്ങൾ പേശീകോശങ്ങളുടേതിന് സമാനമായ സ്വഭാവസവിശേഷതകളാണ് കാഴ്ചവെക്കുന്നത് മാത്രമല്ല സുദൃഢമായ പ്രതലങ്ങളിൽ ഇവ hFOB കോശങ്ങളുടേതിന് തുല്യമായ ഗുണവിശേഷങ്ങളാണ് പ്രകടമാക്കുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ മൂലകോശങ്ങൾ തീർത്തും മെക്കനൊ സെൻസിറ്റീവാണെന്നുള്ള സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് മേല്പറഞ്ഞ പഠനം മൂലകോശങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സ സമ്പ്രദായവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് വിശദമായൊന്ന് നോക്കാം hMSC കോശങ്ങൾ തങ്ങളുടെ ചുറ്റുപാടുമായി സംവേദനക്ഷമത പുലർത്തുന്നവരായതിനാൽ തന്നെ എവിടെ ഇൻജെക്ട് ചെയ്യപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അവയുടെ ഡിഫറെൻസിയേഷൻ പ്രക്രിയയിൽ നാടകീയമായ പ്രതികരണങ്ങൾ പ്രകടമായേക്കാം എന്നതാണ് വസ്തുത hMSC കോശങ്ങൾ ഉപയോഗപ്പെടുത്തി മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന രോഗാവസ്ഥയെ സിമുലേറ്റ് ചെയ്യുന്ന ഒരു പഠനം ഗവേഷകർ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി മേല്പറഞ്ഞ കോശങ്ങൾ സ്വാഭാവികമായും കാർഡിയോമയോസൈറ്റുകളായി ഡിഫറെൻഷിയേറ്റ് ചെയ്യും എന്നതാണ് നമ്മുടെ നിഗമനം എന്നാൽ അതിശയകരമായ ഒരു വസ്തുതയെന്തെന്നാൽ അവ കാർഡിയോമയോസൈറ്റുകളായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളായി ഉരുത്തിരിയുകയാണ് ചെയ്തത് ഇത് തീർത്തും അപകടകരമായ ഒരു അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഫൈബ്രോസിസ് ഉടലെടുക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നതാണ് വസ്തുത കൊളാജെൻ ധാരാളമായി അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് മേല്പറഞ്ഞ ഫൈബ്രോസിസ് പ്രസ്തുത പ്രക്രിയ പ്രാദേശികമായി കാണപ്പെടുന്ന മെട്രിക്സിനെ സുദൃഢമാക്കുന്നതിൽ വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പഠനങ്ങളുമായി പൊരുത്തപ്പെടുത്തി നോക്കുമ്പോൾ ഇത്തരം സുദൃഢമായ പ്രതലങ്ങളിൽ hMSC കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകളായി ഡിഫറെൻഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഇത് തീർത്തും സുപ്രധാനമായ ഒരു വസ്തുതയാണ് ചുരുക്കിപ്പറഞ്ഞാൽ മേൽ സൂചിപ്പിച്ച സ്റ്റം സെൽ തെറാപ്പി ഭീമമായ സാധ്യതകളുള്ള ഒരു നൂതന ചികിത്സ രീതിയാണ് എന്ന് സാരം എവിടെ ഇൻജെക്റ്റ് ചെയ്യുന്നു എന്നതിനെ ആധാരമാക്കി മേല്പറഞ്ഞ മൂലകോശങ്ങൾ ഉചിതമായ സെൽ ടൈപ്പുകളിലേക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രസ്തുത പ്രശ്നം പരിഹരിക്കാനെന്നോണം നമുക്ക് മേൽ സൂചിപ്പിച്ച മൂലകോശങ്ങളെ ഇൻ വിട്രോ വ്യവസ്ഥയിൽ കണ്ടീഷൻ ചെയ്തെടുക്കാവുന്നതാണ് ഇത്തരം കോശങ്ങൾ അനുയോജ്യമായ സെൽ ടൈപ്പുകളിലേക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ കെല്പുള്ളവയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവയെ നമുക്ക് സാവകാശം ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻജെക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് മേൽ സൂചിപ്പിച്ചത് ഒരു പ്രായോഗിക മാർഗ്ഗം മാത്രമാണ് ഇത് കൂടാതെ കോശങ്ങളുടെ ജെൽ മിശ്രിതം ഇൻജെക്റ്റ് ചെയ്യുകയാണ് മറ്റൊരു മാർഗ്ഗം കോശങ്ങളുടെ ഡിഫറെൻസിയേഷന് ഉതകുന്ന ഉചിതമായ ഭൌതിക സൂചകങ്ങൾ എൻകോഡ് ചെയ്യാൻ മേല്പറഞ്ഞ ജെല്ലിന് സാധിക്കുമെന്നതാണ് വസ്തുത ഡിഫറെൻസിയേഷൻ പ്രക്രിയ പൂർത്തിയായാൽ പിന്നെ സാധ്യമായ വിധത്തിൽ ജെൽ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് പ്രസ്തുത ലെക്ച്ചർ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ വിവിധയിനം രോഗാവസ്ഥകളുടെ മെക്കാനോ ബയളോജിക്കൽ റെഗുലേഷനുകളെ കുറിച്ചും മേല്പറഞ്ഞ മെക്കാനിക്സ് ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി